ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഡൈവേർജൻസ് നമുക്കിപ്പോൾ ഇത് മാത്തമാറ്റിക്കലായി ചെയ്യാം ഇതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് വീണ്ടും ദ്രാവകങ്ങളുടെ ഒഴുക്കിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു ചെറിയ റെക്ടാങ്കുലർ ബോക്സ് എടുക്കുകയാണ് ഒരു പോയിന്റ് x y z ൽ x രേഖ ഇതിലെy രേഖ ഇതിലെz രേഖ ഇതിലെ കൂടാതെ ഇതാണ് x y z പോയിന്റ് ബോക്സിന്റെ അളവ് x ദിശയിൽ a y ദിശയിൽ b z ദിശയിൽ c ഞാൻ ഈ ബോക്സ് വീണ്ടും പ്രത്യേകമായി വരയ്ക്കാം ഈ വശം a ഈ വശം b ഈ വശം c നമുക്കിപ്പോൾ കണക്കാക്കാം എന്തെന്നാൽ ഇപ്പോൾ ജലം ഉള്ളിലേക്ക് വന്ന് പുറത്തേക്ക് പോകുന്നു കൂടുതൽ ജലം ഉള്ളിലേക്ക് വന്ന് പുറത്തേക്ക് പോകുന്നതായാണ് കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്ക് സർഫേസിൽ നോക്കുക ഞാൻ ഇതിന് പേര് കൊടുക്കാം ഈ പോയിന്റ്കൾ 1 2 3 4 5 പിറകുവശം 6 7 8 നമുക്ക് 5 എന്ന പോയിന്റ് നോക്കാം ഇത് x y z ആണ് നമുക്ക് 5 6 7 8 സർഫേസ് നോക്കാം 5 6 7 8 x ആക്സിസിന് പെർപെൻഡികുലർ ആണ് അവിടെ ഒരു ദ്രാവക വെലോസിറ്റി V ഉണ്ട് നാം വെലോസിറ്റി മേഖലയെക്കുറിച്ചാണ് പറയുന്നത് അവിടെ ഒരു വെലോസിറ്റി വി ഉണ്ടെങ്കിൽ 5 6 7 8 ൽ കൂടി ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദ്രാവകത്തിന്റെ അളവ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ vx നീളത്തിലുള്ള ഒരു വലിയ റെക്ടാങ്ക്ൾ ഉണ്ടാക്കിയാൽ vx ലുള്ള ദ്രാവകം മുഴുവനും ഈ തലത്തിൽകൂടി പോകും എന്തെന്നാൽ ഒരു സെക്കൻഡിൽ ഇത് ഈ ലെങ്ത് ഫീൽഡ് സഞ്ചരിക്കും അപ്പോൾ ഇതിൽ കൂടി പോകുന്ന ദ്രാവകത്തിന്റെ അളവ് vx ഗുണം ഏരിയ ആണ് ഏരിയ b ഗുണം c ആണ് നമുക്കിത് കുറച്ച് കൂടി കൃത്യമാക്കാം ഈ ബോക്സിൽ കൂടിയാണ് ദ്രാവകം പുറത്തു പോകുന്നത് എന്ന് കാണാം അപ്പോൾ എനിക്ക് വേണ്ടത് പുറത്തേക്ക് ഉള്ള ഒഴുക്കിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ് അത് 5678 ൽ ഈ ഘടകം മൈനസ് എക്സ് ദിശയിൽ ആണ് മൈനസ് x ദിശ സൂചിപ്പിക്കുന്നത് ദ്രാവകം ഉള്ളിലേക്ക് വരുന്നുവോ അതോ പുറത്തേക്ക് പോകുന്നുവോ എന്ന് ആണ് അപ്പോൾ ദ്രാവകം പുറത്തേക്ക് പോകുന്നു അളവ് മുമ്പേ പറഞ്ഞതുപോലെ Vx bc ആണ് അതായത് xyzലെVbc മൈനസ് x ദിശയിൽ ഉള്ള ഘടകം ഞാൻ ഇതിനെ മൈനസ് ദിശയിൽ xyz ൽ ഉള്ള V ഡോട്ട് x bc എന്ന് എഴുതാൻ പോകുന്നു ഇത് 5678 ൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദ്രാവകത്തിന്റെ അളവ് ആണ് നമുക്ക് 1234 സർഫേസ് നോക്കാം 1234 ൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദ്രാവകത്തിന്റെ അളവിന് x ദിശയിൽ ഘടകം ഉണ്ട് അതിനാൽ ഈ ബോക്സിന്റെ വോളിയമിന് പുറത്തേക്ക് 1234 ൽ കൂടി പോകുന്ന ദ്രാവകത്തിന്റെ അളവ് V യുടെ x ദിശയിൽ ഉള്ള ഘടകത്തിന് തുല്യമാണ് ഇത് വോളിയം ഗുണം bcആയിരിക്കും ഈ V x ൽ ആയിരിക്കുമെങ്കിലും ഇപ്പോൾ x പ്ലസ് a ആണ് 5 6 7 8 പ്ലെയ്ൻ x ൽ ആണെന്ന് ഓർമ്മിക്കുക ഇത് x പ്ലസ് a ആയിരിക്കും പക്ഷെ ബാക്കി എല്ലാ പോയിന്റ്റുകൾക്കും y ഉം z ഉം bc ഒന്നായിരിക്കും അതിനാൽ എനിക്കിത് x a y z bc യിലെ vx എന്നെഴുതാൻ സാധിക്കും ഇത് വീണ്ടും vxxyzbc പ്ലസ് vx ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് xbc അടിസ്ഥാനമാക്കി എന്ന് എഴുതാം ഈ തലങ്ങളിൽ കൂടിയുള്ള നെറ്റ് ഫ്ലോ x ആക്സിസിനു പെർപെൻഡികുലറായി xyz bc യിൽ ഉള്ള vx പ്ലസ് xyz bc യിൽ ഉള്ള vx പ്ലസ് x നെ അടിസ്ഥാനമാക്കിയുള്ള vx ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഗുണം bc x ആക്സിസിനു പെർപെൻഡികുലറായി തലത്തിൽകൂടിയുള്ള നെറ്റ് ഫ്ലോ ഇതേ മാതിരി y ആക്സിസ്നു പെർപെൻഡികുലറായി ഈ തലങ്ങളിൽ കൂടിയുള്ള നെറ്റ് ഫ്ലോ Vy യുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഗുണം bc എന്ന് എഴുതാനും നിങ്ങൾക്ക് സാധിക്കും കൂടാതെ z ആക്സിസിനു പെർപെൻഡികുലറായുള്ള തലങ്ങളിൽക്കൂടിയുള്ള നെറ്റ് ഫ്ലോ Vz ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഗുണം abc ആയിരിക്കും അപ്പോൾ ആകെ ഈ പെട്ടിയിൽ കൂടി ഞാൻ എല്ലാ തലങ്ങളും എണ്ണിയാൽ നെറ്റ് ഫ്ലോ abc ഗുണം പാർഷ്യൽ vx ഭാഗം പാർഷ്യൽ x പ്ലസ് പാർഷ്യൽ vý ഭാഗം പാർഷ്യൽ y പ്ലസ് പാർഷ്യൽ vz ഭാഗം പാർഷ്യൽ z ആയിരിക്കും നാം abc എന്നത് വളരെ ചെറുതാണെന്ന് അനുമാനിക്കുന്നു അതിനാൽ ഞാൻ ഫസ്റ്റ് ഓർഡർ മാത്രം എടുത്തു കൂടാതെ ഇത് ഈ ബോക്സിന്റെ ചെറിയ വോളിയം ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇത് ഇങ്ങനെ V യുടെ ഒരു വ്യതിയാനങ്ങൾ ആയി എഴുതാൻ കഴിയും സൂചകമായി ഈ അടയാളം x യൂണിറ്റ് വെക്റ്റർ പാർഷ്യൽ x പ്ലസ് y യൂണിറ്റ് വെക്റ്റർ പാർഷ്യൽ y പ്ലസ് z യൂണിറ്റ് വെക്റ്റർ പാർഷ്യൽ z ആയിരിക്കും അപ്പോൾ ഞാൻ V യുടെ ഡൈവർജൻസ് എന്നെഴുതിയാൽ അത് x പാർഷ്യൽ x പ്ലസ് y പാർഷ്യൽ y പ്ലസ് z പാർഷ്യൽ z എല്ലാം തങ്ങളിൽ ഡോട്ട് ഗുണിതം ചെയ്തത് ഇപ്പോൾ ഞാൻ ഇവയുടെ ഡോട്ട് ഗുണിതം എടുക്കാൻ പോകുന്നു x vxy vyz vz ഞാൻ ഡോട്ട് ഗുണിതം xഡോട്ട് x എടുത്താൽ 1 കിട്ടുന്നു അതിനാൽ എനിക്ക് ബാക്കി ഉള്ളത് yഡോട്ട് y വീണ്ടും 1 അപ്പോൾ എനിക്ക് പാർഷ്യൽ dvxdx പ്ലസ് പാർഷ്യൽ dvydy പ്ലസ് പാർഷ്യൽ dvzdz എന്ന് കിട്ടും മറ്റെല്ലാ ഡോട്ട് ഗുണിതങ്ങളും 0 ആയിരിക്കും അപ്പോൾ നാം കാണുന്നത് എന്തെന്നാൽ ഞാൻ ഒരു ചെറിയ വോളിയം ഉള്ള പെട്ടി എടുത്ത് അതിൽക്കൂടിയുള്ള ഒഴുക്കിനെപ്പറ്റി പറയുന്നത് നെറ്റ് ഫ്ലോ എനിക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും vഡോട്ട് x നാം ഇങ്ങനെ എഴുതി ഓർക്കുക bc പ്ലസ് xലെ V പ്ലസ് ay z ഡോട്ട് x dc കൂടാതെ മറ്റു ഘടകങ്ങൾ യഥാർത്ഥത്തിൽ V ഡോട്ട് dചെറിയ ഏരിയ ഏരിയ യുടെ ദിശ വോളിയമിന് പുറത്തേക്ക് ചൂണ്ടുന്നു അപ്പോൾ നാം കണക്കാക്കിയ അളവ് ഇതാണ് ഈ അളവ് V ഡോട്ട് ds മുഴുവൻ ഏരിയ യിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലാതൊന്നുമല്ല കൂടാതെ നാം കണ്ടതെന്തെന്നാൽ ഈ ഡിസ് എന്ന ചെറിയ ഏരിയയിലെ V ഗുണം ഡെൽറ്റാ V യുടെ ഡൈവർജൻസ് മാത്രമാണ് നമുക്കിത് വീണ്ടും എഴുതാം എനിക്ക് ഈ വളരെ ചെറിയ ബോക്സ് ഉണ്ട് ഞാൻ വി ഡോട്ട് ds കണക്കാക്കുന്നു ഞാൻ ഇത് കുറച്ച് കൂടി നന്നായി എല്ലാ സ്ഥലങ്ങളിലേക്കും വേണ്ടി ഇങ്ങനെ എഴുതാം പ്ലെയ്ൻ 1 പ്ലെയ്ൻ 2 പ്ലെയ്ൻ 3 പ്ലെയ്ൻ 4 എല്ലാം V ഡോട്ട് dV യുടെ ഡൈവർജൻസ് ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൈവർജൻസിനെ നിർവചിക്കുന്നു വെളിയിൽ ഈ തലങ്ങളിൽ കൂടി ഒരു നെറ്റ് ഫ്ലോ ഉണ്ടെങ്കിൽ ഇത് ഒരു പോസിറ്റീവ് അളവാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ V യുടെ ഡൈവർജൻസ് 0 അല്ല നെറ്റ് ഒഴുക്കില്ലെങ്കിൽ ഡൈവർജൻസ് 0 ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു പ്രകാശ സോഴ്സ് എടുത്താൽ എല്ലാ രശ്മികളും വെളിയിലേക്ക് തന്നെ വരുന്നു എന്തെന്നാൽ ഇത് പ്രകാശത്തിന്റെ പുറത്തേക്കുള്ള ഒരു നെറ്റ് ഒഴുക്കാണ് അതുപോലെ ഒരു പ്രകാശ സോഴ്സ് എല്ലാ രശ്മികളും ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇതും കോൺവെർജെൻസ് അല്ലെങ്കിൽ മൈനസ് ഡൈവർജൻസ് മറിച്ച് ഞാൻ എടുക്കുന്ന വോളിയമിൽ ഒന്നും തന്നെ ശേഖരിക്കപ്പെടുന്നില്ല എങ്കിൽ ഡൈവർജൻസ് 0 ആണ് ഇത് പരിശോധിക്കുവാൻ ഒരു മെച്ചപ്പെട്ട വഴി വീണ്ടും ദ്രാവക ഒഴുക്കിനെ പറ്റി നോക്കുകയാണ് ഉദാഹരണത്തിന് ഒരു പോയിന്റിൽ നിന്നും ഒരു ജലധാര നാനാ ഭാഗത്തേക്കും പോകുന്നു എന്ന് വയ്ക്കുക ഞാൻ ഇതിനു ചുറ്റും ഗോളാകൃതിയിലുള്ള ഒരു പ്ലെയ്ൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ പോയിന്റിന് വെളിയിലേക്ക് ഒരു നെറ്റ് ഫ്ലോ ഉണ്ടെന്നു കാണാൻ കഴിയും ഈ താളം എത്ര തന്നെ ചെറുതായാലും ഈ പോയിന്റിൽ നിന്നും ജലം വെളിയിലേക്ക് പോകും അപ്പോൾ ഈ പോയിന്റിലെ V യിലെ ഡൈവർജൻസ് 0 അല്ല ഞാൻ എല്ലാ വസ്തു നിന്നും ജലം ഉള്ളിലേക്കൊഴുകുന്ന ഒരു സിങ്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഡൈവർജൻസ് 0 അല്ല പക്ഷെ വളരെ നെഗറ്റീവ് ആണ് മറിച്ച് നിങ്ങൾ ഒരു കുഴൽ എടുത്താൽ അതിന്റെ വ്യാസം മാറിയാൽ പോലും ഏതെങ്കിലും ചെറിയ വോളിയമിൽ ഉള്ള നെറ്റ് ഫ്ലോ 0 ആണ് അപ്പോൾ ഏതു പോയിന്റിലേയും ഡൈവർജൻസ് 0 ആണ് ഇത് ഡൈവർജൻസ് എന്നതിനെപ്പറ്റി ഒരു ചിത്രം നിങ്ങള്ക്ക് നൽകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡൈവർജൻസ് മേഖലയുടെ സോഴ്സ് മായോ സിങ്കുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു സോഴ്സ്ഓ സിങ്കോ നെഗറ്റീവ് സോഴ്സ് എത്ര മാത്രം ശക്തിമത്താണ് ഫ്ലോ അത്രയും കൂടുതലായിരിക്കും ഡെൽ വി ഡോട്ട് ഡി എസ് വലുതായിരിക്കും ശക്തിമത്തായ സോഴ്സ് സൂചിപ്പിക്കുന്നത് വി ഡോട്ട് ഡി എസ് വലുതാണെന്നാണ് അതായത് വി ഡിവി യുടെ ഡൈവർജൻസ് വലുതാണ് ഇപ്പോൾ നാം ഏതെങ്കിലും ഒരു വെക്ടർ മേഖലയുടെ ഡൈവർജൻസിന്റെ ഗണിതപരമായ നിർവചനം നൽകിക്കഴിഞ്ഞു ഇത് സോഴ്സിന്റെന്റെ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോഴ്സ് വലുതാണെങ്കിൽ അത് കൂടുതൽ ശക്തിമത്തായിരിക്കുകയും ഡൈവർജൻസ് കൂടുതലായിരിക്കുകയും ചെയ്യും ഒരു സ്രോതസ്സോ സിങ്കോ ഉള്ള ചില പോയിന്റുകളിൽ മാത്രം 0 ആവുകയില്ല എന്തെന്നാൽ അപ്പോൾ അവിടെ നെറ്റ് ഫ്ലോ പുറത്തേക്കോ അകത്തേക്കോ ആയിരിക്കും എ എന്ന പോയിന്റിലെ ഒരു ചെറിയ വ്യാപ്തത്തിൽ കൂടിയുള്ള നെറ്റ് ഫ്ലോ 0 ആണെങ്കിൽ അവിടത്തെ ഡൈവർജൻസ് 0 ആയിരിക്കും അപ്പോൾ ഡൈവർജൻസിന്റെ നിർവ്വചനം ഇതാണ് ഡൈവർജൻസിന്റെ ഈ നിർവ്വചനവുമായി ബന്ധപ്പെട്ട ഒരു തിയറം ഉണ്ട് അതാണ് ഡൈവർജൻസ് തിയറം ഏതെങ്കിലും ഒരു വെക്റ്റർ മേഖലയിൽ ഏതെങ്കിലും രൂപത്തിൽ ഉള്ള ഒരു തലം ഏതെങ്കിലും വോളിയം ഉൾക്കൊണ്ടത് ഇതാണ് വോളിയം ഈ വോളിയത്തിൽ ഞാൻ ഇതിനെ ചെറിയ റെക്ടാങ്കുലർ ബോക്സുകളായി ടു ഡൈമെൻഷനിൽ നിർമ്മിക്കുന്നു പക്ഷെ ഈ ബോക്സുകൾ സങ്കല്പിച്ച് ഓരോ പോയിന്റിലും ഞാൻ ഡൈവർജൻസ് കണക്കാക്കുന്നു അപ്പോൾ ഓരോ പോയിന്റിലും ഈ പോയിന്റിൽ എനിക്ക് ഡൈവർജൻസ് വി ഗുണം ഡെൽറ്റാ വോളിയം ഉണ്ട് ഇത് ഓരോന്നിലും കൂടിയുള്ള ഐവി ഡോട്ട് ഡിഎസ് ന്റെ തുകയാണ് അപ്പോൾ ഇത് എല്ലാ ബോക്സിന്റെതും കൂട്ടിയാൽ എനിക്ക് എല്ലാം കൂടി കൂട്ടണം ഈ രണ്ടു പെട്ടികൾ നോക്കാം ഞാൻ ഇത് പോലെ ഒരു പെട്ടി എടുത്താൽ അടുത്ത പെട്ടിയുമായി ഇടയിലുള്ള ഈ തലത്തിൽ താഴെ ഉള്ള ബോക്സിന്റെ വി ഡോട്ട് ഡിഎസ് എടുത്താൽ ഡി എസ് ഈ ദിശയിൽ പോകുന്നു മുകളിൽ ഉള്ള ബോക്സിന്റെ വി ഡോട്ട് ഡി എസ് ഈ ദിശയിൽ പോകുന്നു ഇവ രണ്ടും വിപരീതമാണ് അതിനാൽ ഞാൻ വോളിയം ഇന്റ്റഗ്രേഷൻ ചെയ്യുമ്പോൾ വി ഡോട്ട് ഡി എസ് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ പോസിറ്റീവും ഇവിടെ വോളിയം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവും നൽകും അപ്പോൾ ഈ തലത്തിൽ ഈ പൊതുവായ തലത്തിൽ നിന്നും ഉള്ള സംഭാവന ക്യാന്സലാകും ഈ രണ്ടു പെട്ടികൾ മാത്രമല്ല അടുത്തടുത്ത് വരുന്ന എല്ലാ പെട്ടികൾക്കും ഇത് സംഭവിക്കും അപ്പോൾ ഞാൻ ഈ വലതു വശത്തെ എല്ലാം സംഭാവനകൾ കൂട്ടുമ്പോൾ പൊതുവായ തലങ്ങളിൽ ഉള്ളവ ക്യാന്സലാകും അപ്പോൾ ശേഷിക്കുന്നത് പുറമേയുള്ള തലത്തിലേത് മാത്രം ആയിരിക്കും എന്തെന്നാൽ പുറത്തേ തലത്തിൽ ക്യാന്സലാക്കാൻ ഒന്നുമില്ല അതുപോലെ ഇടതു ഭാഗത്ത് ഉള്ളവ എല്ലാം കൂട്ടുമ്പോൾ എനിക്ക് ഈ വ്യാപ്തത്തിന് പുറമേ തലത്തിൽ ഉള്ള വി ഡോട്ട് ഡി എസ് ന്റെ ഇന്റ്റഗ്രേഷൻ ബാക്കി ആകുന്നു ഇതാണ് ഡൈവർജൻസ് തിയറം ഇത് പറയുന്നത് എന്തെന്നാൽ ഒരു വലിയ വോളിയം ഉള്ളപ്പോൾ ഇതിൽ കൂടിയുള്ള വെക്റ്റർ മേഖലയിൽ ഞാൻ എല്ലാ ബോക്സിന്റെയും വി ഡെൽറ്റാ വി യുടെ ഡൈവർജൻസ് എല്ലാം കൂടി കൂട്ടി ഇതിനർത്ഥം മുഴുവൻ വോളിയവും പുറത്തെ തലങ്ങളിക്കൂടിയുള്ള വി ഡോട്ട് ഡി എസ് നു തുല്യമാണ് എന്തെന്നാൽ ഡി എസ് എല്ലാം തലങ്ങൾക്ക് പെർപെൻഡികുലറായി പുറത്തേക്ക് ചൂണ്ടുന്നു ഇത് ഇപ്പോൾ ആകെ വോളിയത്തിൽ ഉള്ള ഡൈവർജൻസിന്റെ ഇന്റഗ്രേഷൻ എന്നെനിക്ക് എഴുതാം ഇത് വി ഡോട്ട് ഡി എസ് ന്റെ ഇന്റഗ്രേഷന് തുല്യമാണ് ഇതാണ് ഡൈവർജൻസ് തിയറം എന്നറിയപ്പെടുന്നത് അടുത്ത പ്രസംഗത്തിൽ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് മൂലമുണ്ടാകുന്ന ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഡൈവർജൻസിനെപ്പറ്റി പറയാം അതിനു ശേഷം ഇലക്ട്രിക്ക് ഫീൽഡിന്റെ കേൾ നെ പ്പറ്റി വിശദീകരിക്കാം